ഗുഡ് ആഫ്റ്റർനൂൺ ഇപ്പോൾ നമ്മൾ ഒരു പരാമെട്രിക് മോഡൽ കൂടി എടുക്കുകയാണ് അതായത് കൊക്കോമോ 1 കൊക്കോമോ 81 കൊക്കോമോ II മുൻപത്തെ ക്ലാസ്സിൽ നാം ആൽബ്രച്ച് LFPUG ഫങ്ക്ഷൻ പോയിന്റുകളെയും സൈമൺസ് മാർക്ക് II ഫങ്ക്ഷൻ പോയിന്റുകളെയും കോസ്മിക് ഫങ്ക്ഷൻ പോയിന്റുകളെയും പറ്റി കണ്ടു അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നതാണ് കൊക്കോമോ അതായത് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ചചെയ്യാൻ പോകുന്നത് സൈസിന്റെ വിവിധ പരാമെട്രിക് മോഡലുകളായ കൊക്കോമോ 81 കൊക്കോമോ II എന്നിവയെക്കുറിച്ചാണ് ആദ്യമായി നമുക്ക് കൊക്കോമോ എന്നാൽ എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് നോക്കാം കൊക്കോമോ എന്നാൽ കൺസ്ട്രക്റ്റീവ് കോസ്റ്റ് മോഡൽ 1981ൽ ഡോ ബാരി ബോംDr Barry Boehm ആണ് ഇത് ആദ്യമായി പ്രസിദ്ധപ്പെടുത്തിയത് നിരവധി സംവേദനാത്മകമായ കോസ്റ്റ് എസ്റ്റിമേഷൻ പാക്കേജുകളുടെ സോഫ്റ്റ്വെയറുകൾ ഇപ്പോൾ ലഭ്യമാണ് 63 മുൻകാല പ്രോജക്ടുകളിലെ ഏകദേശം 2000 മുതൽ 5 ലക്ഷത്തി പന്തീരായിരം വരെയുള്ള ഇൻസ്ട്രക്ഷനുകളിലെ ഡാറ്റ പഠന വിധേയമാക്കി അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ റിഗ്രഷനിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് കൊക്കോമോ മോഡൽ നമുക്ക് ആദ്യമായി കൊക്കോമോ 81 നോക്കാം അതിനുശേഷം കൊക്കോമോ II വ്യവസായ ഉൽപ്പാദ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് കൊക്കോമോ 81 ഡേറ്റാബേസ് നിരന്തരമായി മെച്ചപ്പെടുത്താൻ സാധിക്കും ഇത് ഒരു സ്ഥാപനത്തിലെ സോഫ്റ്റ്വെയറിന്റെ ഉൽപാദനക്ഷമതയെ ബെഞ്ച്മാർക്ക് ചെയ്യുവാൻ സഹായിക്കുന്നു നമുക്ക് എഫോർട് കണക്കു കൂട്ടണമെകിൽ അടിസ്ഥാന മോഡൽ ഇങ്ങനെ ആണ് അടിസ്ഥാന മോഡൽ പറയുന്നത് എഫോർട്ടിനെ രണ്ടു കാര്യങ്ങളുടെ ഗുണന ഫലമായി കണക്കാക്കാം അതായത് 'c' യുടെയും 'സൈസി' ൻറെയും ഇവിടെ നമുക്ക് എഫോർട്ടിനെ താഴെ പറയുന്നതുപോലെ പ്രതിനിധീകരിക്കാം effort c sizek ഇതിൽ സിസ്റ്റത്തിന്റെയും നാം വികസിപ്പിക്കാൻ പോകുന്ന പ്രോഡക്റ്റിന്റെയും പ്രൊജക്റ്റിന്റെയും തരം അനുസരിച്ച് സിയുടെയും കെയുടെയും മൂല്യം വ്യത്യാസപ്പെട്ടിരിക്കും പ്രോഡക്റ്റിനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ഒന്നാമതായി ഓർഗാനിക് രണ്ടാമതായി സെമി ഡിറ്റാച്ചഡ് മൂന്നാമതായി എംബഡഡ് സൈസിൻറെ അളവ് KLOC ആയിരിക്കും അതായത് എത്ര ആയിരം കോഡ് ലൈനുകൾ ഉണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഇനി നമുക്ക് വിവിധതരം കൊക്കോമോ മോഡുകളും മോഡലുകളും എന്താണെന്ന് നോക്കാം കൊക്കോമൊയ്ക്ക് 3 വ്യത്യസ്തമായ എൻവിയോൺമെന്റുകൾ അഥവാ മോഡുകളാണ് ഉള്ളത് അവ മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓർഗാനിക് മോഡ് സെമി ഡിറ്റാച്ചഡ് മോഡ് എംബഡഡ് മോഡ് എന്നിവയാണ് ഇവിടെ മൂന്ന് അതിസങ്കീർണമായ കൊക്കോമോ മോഡലുകളാണ് ഉള്ളത് ഒന്നാമതായി ബേസിക് മോഡൽ രണ്ടാമതായിഇൻറർ മീഡിയേറ്റ് മോഡൽ മൂന്നാമതായി ഡീറ്റെയിൽഡ് മോഡൽ അതോടൊപ്പം ഇന്ന് നമ്മൾ ബേസിക് മോഡൽ ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത് പിന്നെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇന്റർ മീഡിയേറ്റ് മോഡലും ഡീറ്റെയിൽഡ് മോഡലും ചർച്ച ചെയ്യുന്നതായിരിക്കും ആദ്യമായി നമുക്ക് കൊക്കൊമോ മോഡുകൾ നോക്കാം ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ കൊക്കോമൊയ്ക്ക് മൂന്ന് മോഡുകൾ അഥവാ എൻവിയോൺമെന്റുകൾ ആണുള്ളത് ഓർഗാനിക് മോഡ് സെമി ഡിറ്റാച്ചഡ് മോഡ് എംബഡഡ് മോഡ് എപ്പോഴാണ് നാം ഒരു പ്രോഡക്റ്റിനെ ഓർഗാനിക് മോഡ് എന്ന് വിളിക്കുന്നത് ഒരു പ്രോഡക്റ്റിനെ പരിചയമുള്ളതും സ്ഥിരത ഉള്ളതുമായ ഒരു ചുറ്റുപാടിൽ വികസിപ്പിച്ചെടുക്കാമെങ്കിൽ അതിനെ ഓർഗാനിക് മോഡ് എന്ന് വിളിക്കാം അതായത് നിങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് മുൻപ് വികസിപ്പിച്ചെടുത്തിട്ടുള്ള പ്രോഡക്റ്റുകളുമായി സാമ്യം ഉള്ളതാണെങ്കിൽ അതിന്റെ സൈസ് സാധാരണയായി 50000 ഇൻസ്ട്രക്ഷനുകളിലും കുറവായിരിക്കും അതിനാൽ അതിൻറെ സൈസ് എപ്പോഴും 50000 സോഴ്സ് ഇൻസ്ട്രക്ഷനുകളെക്കാൾ കുറവായിരിക്കും ഉദാഹരണത്തിന് ആളുകൾ നിങ്ങളുടെ അക്കൌണ്ടിംഗ് സിസ്റ്റം കാണുന്നു എന്നിരിക്കട്ടെ അപ്പോൾ എല്ലാ ഇൻഫർമേഷൻ സിസ്റ്റംസും സാധാരണയായി ഓർഗാനിക് മോഡിന്റെ കീഴിൽ വരുന്നു ഉദാഹരണത്തിന് അക്കൌണ്ടിംഗ് സിസ്റ്റം വിദ്യാർത്ഥികളുടെ ഇൻഫർമേഷൻ സിസ്റ്റം പേറോൾ ഇൻഫർമേഷൻ സിസ്റ്റം ഇവയെല്ലാം ഓർഗാനിക് മോഡിന് കീഴിൽ വരുന്നവയാണ് അങ്ങനെയെങ്കിൽ എന്താണ് സെമി ഡിറ്റാച്ചഡ് മോഡ് സെമി ഡിറ്റാച്ചഡ് മോഡിലേക്ക് കടക്കുന്നതിനു മുമ്പ് നമുക്ക് എംബഡഡ് മോഡ് എന്താണെന്ന് നോക്കാം എംബഡഡ് മോഡ് എന്നാൽ യഥാർത്ഥത്തിൽ പൂർണ്ണമായും പുതിയൊരു പ്രോഡക്റ്റ് ആയിരിക്കും തികച്ചും പുതിയതും ഒരുപാട് നവീകരണങ്ങളോടു കൂടിയതും വളരെയധികം പരിശ്രമവും വ്യതിചലിപ്പിക്കാനാവാത്ത നിയന്ത്രണങ്ങളും ഇന്റർഫേസ് ആവശ്യകതകളും ഉണ്ടായിരിക്കും അതുകൊണ്ട് സാധാരണയായി നിങ്ങളുടേതായ എല്ലാ സിസ്റ്റംസും ഉദാഹരണത്തിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിയൽ ടൈം സിസ്റ്റം എന്നിങ്ങനെയുള്ള സോഫ്റ്റ്വെയർ കാര്യങ്ങളും എംബഡഡ് സിസ്റ്റംസും എംബഡഡ് മോഡിൽ പെടുന്നു ഇനി നമുക്ക് സെമി ഡിറ്റാച്ചഡ് മോഡ് നോക്കാം ഓർഗാനിക് മോഡിന്റെയും എംബഡഡ് മോഡിന്റെയും ഇടയ്ക്കു വരുന്ന എല്ലാ പ്രോഡക്ടുകളെയും സാധാരണയായി നമ്മൾ സെമി ഡിറ്റാച്ചഡ് മോഡ് പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നു അതുകൊണ്ട് സെമി ഡിറ്റാച്ചഡ് പ്രോഡക്ടുകൾ ഓർഗാനിക് മോഡിന്റെയും എംബഡഡ് മോഡിന്റെയും ഇടയിൽ വരുന്നു ഉദാഹരണത്തിന് കമ്പൈലറുകൾ ലിങ്കറുകൾ മുതലായവ അതിനാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന പട്ടികയിൽ പലതരം മോഡലുകളുടെ കീഴിൽ വരുന്ന പ്രോഡക്ടുകളുടെ വ്യത്യസ്ത സവിശേഷതകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ഉദാഹരണത്തിന് പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള സംഘടനാപരമായ അറിവുകളും ലക്ഷ്യങ്ങളും ഓർഗാനിക് മോഡിനെ സംബന്ധിച്ചിടത്തോളം സമഗ്രം ആയിരിക്കും എന്നാൽ സെമി ഡിറ്റാച്ചഡ്നെ സംബന്ധിച്ചെടുത്തോളം ഗണ്യവും എംബഡഡ് സംബന്ധിച്ചിടത്തോളം സാധാരണവും ആയിരിക്കും അതുപോലെതന്നെ സമാനമായ സോഫ്റ്റ്വെയർ സിസ്റ്റംസിൽ ജോലി ചെയ്ത മുൻപരിചയം ഓർഗാനിക് മോഡിൽ വളരെയധികവും സെമി ഡിറ്റാച്ചഡ് മോഡിൽ താരതമ്യേന കുറവും എംബഡഡ് മോഡിൽ മിതമായും പരിഗണിക്കപ്പെടുന്നു അതുപോലെ മുൻ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ആവശ്യകതകളും ആയുള്ള സോഫ്റ്റ്വെയറിന്റെ അനുരൂപീകരണം ഓർഗാനിക്കിൽ അടിസ്ഥാനപരവും സെമി ഡിറ്റാച്ചഡിൽ ഗണ്യവും എംബഡഡിൽ പരിപൂർണ്ണവും ആയിരിക്കും അതുപോലെതന്നെ സോഫ്റ്റ്വെയറിന്റെ ബാഹ്യമായ ഇന്റർഫേസ് സവിശേഷതകളുടെ കാര്യങ്ങളും ഓർഗാനിക്കിൽ ന്യായമായും സെമി ഡിറ്റാച്ചഡിൽ ഗണ്യവും എംബഡഡിൽ പരിപൂർണ്ണവും ആയിരിക്കും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ കൊക്കൊമോകു വ്യത്യസ്തമായ മോഡലുകൾ ആണുള്ളത് ഒന്ന് ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ബേസിക് മോഡൽ അതിനുശേഷം ഇന്റർമീഡിയേറ്റ് മോഡൽ പിന്നീട് ഡീറ്റെയിൽഡ് മോഡൽ ആദ്യമായി നമുക്ക് ബേസിക് മോഡൽ നോക്കാം സാധാരണയായി ഈ ബേസിക് മോഡൽ ഉപയോഗിക്കുന്നത് പ്രോജക്ടിന്റെ ചിലവ് പെർഫോമൻസ് ഷെഡ്യൂൾ മുതലായവയെ കുറിച്ചുള്ള ഒരു ഏകദേശ കണക്ക് ലഭിക്കുവാൻ ആണ് അതുകൊണ്ട് ഈ മോഡൽ ഉപയോഗിച്ച് പ്രോജക്ടിന്റെ ആദ്യഭാഗത്ത് ആവശ്യമായ കോസ്റ്റ് ' പെർഫോമൻസ് ഷെഡ്യൂൾ മുതലായവയെ കുറിച്ചുള്ള ഏകദേശ കണക്ക് നമുക്ക് ലഭിക്കുന്നു അതിൻറെ കൃത്യത എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആവശ്യമായ 60 ശതമാനം സമയത്തിന്റെ രണ്ട് ഘടകത്തിനുള്ളിൽ വരും ഇൻറർ മീഡിയേറ്റ് മോഡൽ 15 കോസ്റ്റ് ഡ്രൈവറുകളിൽ നിന്നുള്ള എഫോർട്ട് അഡ്ജസ്റ്റ്മെൻറ് ഫാക്ടറുകൾ EAF എന്ന് വിളിക്കുന്ന എഫോർട്ട് അഡ്ജസ്റ്റ്മെൻറ് ഫാക്ടറുകൾ ഉപയോഗിക്കുന്നു അതായത് 10 മുതൽ 20 ശതമാനം വരെയുള്ള ചിലവ് കണക്കാക്കപ്പെടുന്നില്ല അതിനർത്ഥം പരിശീലനം പരിപാലനം ഗുണമേന്മ മുതലായവക്കുള്ള ചിലവുകൾ ഇതിൽ കണക്കാക്കുന്നില്ല ഈ മോഡലിൻറെ കൃത്യത ആകെയുള്ള 68 ശതമാനം സമയത്തിൽ 20 ശതമാനം വരും അടുത്ത മോഡലാണ് ഡീറ്റൈൽഡ് മോഡൽ അല്ലെങ്കിൽ COCOMO കമ്പ്ലീറ്റ് മോഡൽ അല്ലെങ്കിൽ കമ്പ്ലീറ്റ് COCOMO മോഡൽ ഇതിൽ പ്രോജക്ടിന് ഓരോ ഘട്ടങ്ങളിലും വിവിധ എഫോർട്ട് മൾട്ടി പ്ലെയറുകളെ ഉപയോഗിക്കുന്നു മിക്ക പ്രോജക്ട് മാനേജർമാരും ഇൻറർ മീഡിയേറ്റ് മോഡൽ ആണ് ഉപയോഗിക്കുന്നത് ആദ്യമായി ബേസിക് കൊക്കൊമോ മോഡലിൻറെ എഫോർട്ട് സമവാക്യം നോക്കാം കൊക്കൊമോ 81 അനുസരിച്ച് എഫോർട്ട് കണ്ടുപിടിക്കാനുള്ള അടിസ്ഥാന സമവാക്യം എന്നാൽ എഫോർട്ട് c സൈസ് k ഡെവലപ്മെന്റൽ മോഡൽ അനുസരിച്ച് 'c'ഒരു കോൺസ്റ്റൻഡ് ആണ് ഓർഗാനിക് മോഡിൽ 'c' യുടെ മൂല്യം 2 4 ഉം സെമി ഡിറ്റാച്ചഡ് മോഡിൽ ഇത് 3 0 ഉം എംബഡഡ് മോഡിൽ ഇത് 3 6 ഉം ആണ് അതുപോലെതന്നെ സൈസ് കണക്കാക്കുന്നത് KSLOC അതായത് 1000 സോഴ്സ് കോഡ് ലൈനുകൾ 'K' എന്നാൽ മോഡുകൾക്ക് അനുസരിച്ച് വ്യത്യസ്തമായി വരുന്ന മറ്റൊരു കോൺസ്റ്റൻഡ് ആണ് ഇതിൻറെ മൂല്യം ഓർഗാനിക് മോഡിൽ 1 05 ഉം സെമി ഡിറ്റാച്ചഡ് മോഡിൽ ഇത് 1 12 ഉം എംബഡഡ് മോഡിൽ ഇത് 1 20 ഉം ആണ് അതുകൊണ്ട് 'c'യുടെയും 'k'യുടെയും വ്യത്യസ്ത മൂല്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ പട്ടികയുടെ രൂപത്തിൽ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു ഇവിടെ ചില മൂല്യങ്ങളുടെ പവർ ആയിട്ട് കൂട്ടാവുന്ന 'k'യുടെ മൂല്യം വലിയ പ്രോജക്ടുകളിലേക്ക് ആനുപാതികമല്ലാത്ത രീതിയിൽ എഫോർട്ടിനെ കൂട്ടിച്ചേർക്കുന്നു ഇത് വലിയ മാനേജ്മെന്റ് ചെലവുകളും കണക്കിലെടുക്കുന്നു ഇപ്പോൾ ബേസിക് കൊക്കൊമോമോഡൽ അഥവാ കൊക്കൊമോ 81 ഉപയോഗിച്ച് ഷെഡ്യൂൾ കണക്കാക്കുന്നതിനുള്ള സമവാക്യം കണ്ടുപിടിക്കാം നോമിനൽ ഡെവലപ്മെൻറ് ടൈം പറയുന്നതു 2 5 എഫോർട്ട് എക്സ്പോനിന്റ ഇവിടെ നമ്മൾ മുൻപ് കണ്ടുപിടിച്ചത് അനുസരിച്ച് എഫോർട്ട് c സൈസ് k ആണ് അങ്ങനെ എഫോർട്ടിന്റെ മൂല്യം ഈ സമവാക്യത്തിൽ ഉപയോഗിച്ച് നമുക്ക് നാമമാത്രമായ ഡെവലപ്മെൻറ് സമയം കണ്ടുപിടിക്കാവുന്നതാണ് അതായത് നാമമാത്രമായ ഡെവലപ്മെൻറ് സമയം എന്നാൽ നോമിനൽ ഡെവലപ്മെൻറ് ടൈം 2 5 എഫോർട്ട് എക്സ്പോനൻറ് 2 5 എന്നത് എല്ലാ മോഡലുകൾക്കും കോൺസ്റ്റൻറ് ആണ് അതായത് ഓർഗാനിക്കിൽ സെമി സെമി ഡിറ്റാച്ചഡ് പിന്നെ എംബഡഡ് എന്നാൽ എക്പോണെന്റ് മൂല്യം നാം ഉപയോഗിക്കുന്ന മോഡ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഓർഗാനിക് മോഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എക്പോണെന്റ് മൂല്യം 0 38 ഉം സെമി ഡിറ്റാച്ചഡിൽ 0 35 ഉം എംബഡഡിൽ 0 32 ഉം ആയിരിക്കും എഫൊർട്ടും ഡ്യൂറേഷനും കണ്ടുപിടിക്കാനുള്ള 2 സമവാക്യങ്ങളും നാം കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് ഈ വിവിധ പ്രൊജക്ടുകളുടെ ഗ്രാഫ് എങ്ങനെയിരിക്കുമെന്ന് നോക്കാം X ആക്സിസിൽ നാം സൈസും Y ആക്സിസിൽ എഫോർട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് എഫൊർട്ട് പ്രോബ്ലംസ് അനുസരിച്ച് ഏതാണ്ട് സൂപ്പർ ലീനിയർ ആണ് എന്നുള്ളതാണ് അതായത് വലിപ്പം കൂടുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അത് ആനുപാതികമായി അല്ല എന്നും കാണാം അതുകൊണ്ട് എഫൊർട്ട് ഏതാണ്ട് പ്രോബ്ലം സൈസിൽ സൂപ്പർ ലീനിയർ ആയി ഇരിക്കുന്നു അതുപോലെ ഏത് സൈസിനും ഡെവലപ്മെൻറ് ടൈമിനും ഇടയിൽ നിങ്ങൾക്ക് ഒരു ഗ്രാഫ് വരയ്ക്കാൻ കഴിയും അതിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഡെവലപ്മെൻറ് ടൈം എന്ന് പറയുന്നത് പ്രോഡക്റ്റ് സൈസിനോട് ഒരു സബ് ലീനിയർ ഫംഗ്ഷൻ ആണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്നുവെച്ചാൽ പ്രോഡക്റ്റ് സൈസ് കൂടുന്നതനുസരിച്ച് അതിൻറെ ഡെവലപ്മെൻറ് ടൈം കൂടുന്നില്ല നിങ്ങൾ ദയവായി ശ്രദ്ധിക്കുക പ്രോഡക്റ്റ് സൈസ് രണ്ടു മടങ്ങ് കൂടുമ്പോൾ ഡെവലപ്മെൻറ് ടൈം രണ്ടു മടങ്ങ് കൂടുന്നില്ല ഇരട്ടി ആകുന്നില്ല ഉപയോഗിക്കപ്പെട്ട സമയം ഏകദേശം ഒരുപോലെ തന്നെയാണ് ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന മറ്റൊരു നിരീക്ഷണം ഇങ്ങനെയാണ് അതായത് ഏതൊരു പ്രോഡക്റ്റ് കാറ്റഗറിക്കും ഉപയോഗിക്കപ്പെട്ട സമയം ഏകദേശം ഒരേ പോലെ തന്നെയാണ് അതായത് പ്രോഡക്ട് ഓർഗാനിക് ആണെങ്കിലും സെമി ഡിറ്റാച്ചഡിൽ ആണെങ്കിലും എംബഡഡിൽ ആണെങ്കിലും ഉപയോഗിക്കുന്ന സമയം ഏതാണ്ട് ഒന്ന് തന്നെയായിരിക്കും കൂടാതെ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ഡെവലപ്മെൻറ് ടൈം പ്രോഡക്റ്റ് സൈസിനോട് അനുപാതികം ആയിട്ട് കൂടുന്നില്ല കാരണം വലിയ പ്രൊഡകറ്റുകൾക്കായി കൂടുതൽ സമാന്തര പ്രവർത്തനങ്ങൾ തിരിച്ചറിയാൻ കഴിയും മാത്രമല്ല അവ ഒരേസമയം നിരവധി എഞ്ചിനീയർമാർക്ക് നടത്താനും സാധിക്കും അതുകൊണ്ട് ഡെവലപ്മെൻറ് ടൈം പ്രോഡക്റ്റ് സൈസുമായി ആനുപാതികമായി കൂടുന്നില്ല അതുകൊണ്ടാണ് ഗ്രാഫ് താഴെ കാണിച്ചിരിക്കുന്നത് പോലെ വരുന്നത് ഞാൻ പറഞ്ഞത് പോലെ ഡെവലപ്മെൻറ് ടൈം ഏകദേശം ഒരേ പോലെ 3 കാറ്റഗറികൾക്കും വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം ഒരു 60 KLOC പ്രോഗ്രാം കണക്കാക്കുക അത് ഓർഗാനിക് അല്ലെങ്കിൽ സെമി ഡിറ്റാച്ചഡ് അല്ലെങ്കിൽ എംബഡെഡ് തരം പ്രോഡക്ട് ആണോ എന്നത് പരിഗണിക്കാതെ തന്നെ നമുക്ക് ഏകദേശം 18 മാസം കൊണ്ട് ഡെവലപ്പ് ചെയ്യാം എന്ന് വിചാരിക്കുക ഇവിടെ നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാം എന്തുകൊണ്ട് കാരണം മറ്റൊന്നുമല്ല മുൻപ് ഞാൻ സൂചിപ്പിച്ചത് പോലെ വലിയ പ്രോഗ്രാമുകൾക്ക് യൂട്ടിലിറ്റി പ്രോഗ്രാമുകളെക്കാൾ കൂടുതലായി ആയി സിസ്റ്റം ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് തുടങ്ങിയ പാരലൽ ആക്ടിവിറ്റീസ് കൂടുതൽ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് അടയാളപ്പെടുത്താൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്നുവെച്ചാൽ എക്സ്പോനൻറ് ഒന്നിനേക്കാൾ കൂടുതൽ ആയിരിക്കുമ്പോൾ എഫോർട്ടിനു എങ്ങനെ ഗ്രാഫിൽ കാണപ്പെടുന്നു എന്നും എക്സ്പോനൻറ് ഒന്നിനേക്കാൾ ചെറുതായിരിക്കുമ്പോൾ ഈ ഗ്രാഫ് ഡ്യൂറേഷൻ എങ്ങനെ രേഖപ്പെടുത്തുന്നു എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു ഗ്രാഫിൽ വർദ്ധിച്ചുവരുന്ന എഫോർട്ടിൻറെ ഡ്യൂറേഷൻ കാണുക ഈ പവർ എക്സ്പൊനൻറ് 1 0 38 ൽ താഴെയാകുമ്പോൾ വർദ്ധിച്ചുവരുന്ന എഫോർട്ടിൻറെ ഡ്യൂറേഷൻ എങ്ങനെയുണ്ടെന്ന് കാണുക നിങ്ങളുടെ എക്സ്പോണൻഷ്യൽ മൂല്യം 1 ൽ കുറവാണെന്നും ഒരു എഫോർട്ട് നടന്നാൽ ഈ എക്സ്പോനൻറ് 1 നേക്കാൾ വലുതാകുന്നു അതുകൊണ്ട് എഫോർട്ടിൻറെ ഗ്രാഫ് ഇങ്ങനെ കാണപ്പെടുന്നതായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനാൽ ഇങ്ങനെയാണ് എക്സ്പോനൻറിൻറെ മൂല്യം ഒന്നിനേക്കാൾ കൂടുതലോ കുറവോ എന്നതനുസരിച്ച് എഫോർട്ടിൻറെ ഡ്യൂറേഷൻറെയും ഗ്രാഫിൻറെയും സൈസിൽ വ്യത്യാസം വരുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് ഇതിനെ വിശദീകരിക്കാം നമുക്ക് ബേസിക് 'കോക്കോമ'യുടെ ചില സമവാക്യങ്ങൾ ഉപയോഗിച്ച് എഫോർട്ടും നോമിനൽ ഡെവലപ്മെൻറ് ടൈപ്പും കണ്ടുപിടിക്കാൻ ശ്രമിക്കാം ആദ്യത്തെ ഉദാഹരണത്തിൽ ഒരു ഓർഗാനിക് സോഫ്റ്റ്വെയർ പ്രൊഡക്ടിൻറെ സൈസ് 32 ലൈൻസ് ഓഫ് സോഴ്സ് കോഡ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ വേണ്ടേ മാസവരുമാനം ശരാശരി 15000 രൂപ ആണെന്ന് അനുമാനിക്കുക നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആ സോഫ്റ്റ്വെയർ പ്രോഡക്ട് ഉണ്ടാക്കാൻ ആവശ്യമായ ആയ എഫോർട്ടും നോമിനൽ ഡെവലപ്മെൻറ് ടൈമം കോസ്റ്റും കണ്ടുപിടിക്കുക അതായത് ഈ പ്രശ്നത്തിൽ നിന്നും ഇതൊരു ഓർഗാനിക് സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ആണെന്ന് നമുക്ക് കാണാം അതുകൊണ്ട് എഫൊർട്ട് ഫോർമുല നമുക്കറിയാം effortc size k ഇനി നമുക്ക് ഓർഗാനിക് സോഫ്റ്റ്വെയർ c യുടെയും k യുടെയും മൂല്യം കണ്ടുപിടിക്കണം cയുടെയും kയുടെയും മൂല്യം ഒരു ടേബിൾ രൂപത്തിൽ തന്നിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അതുകൊണ്ട് ഓർഗാനിക് പ്രൊഡക്ടുകൾക്ക് c യുടെ മൂല്യം 22 4 ആണ് k യുടെ മൂല്യം എത്രാണ് k യുടെ മൂല്യം 1 അതുകൊണ്ട് ഇവിടെ ഞാൻ cയുടെയും kയുടെയും മൂല്യം സമവാക്യത്തിൽ ഇടുന്നന്നേ ഉള്ളൂ അതുകൊണ്ട് ഓർഗാനിക് പ്രോഡക്ടിന് c യുടെ മൂല്യം 2 2 ഉം k യുടെ മൂല്യം 1 0 5 ഉം ആണ് സൈസ് 32000 ലൈൻസ് ഓഫ് കോഡ് ആണെന്ന് ഇതിനകം തന്നിട്ടുണ്ട് അതായത് 32 KLOC അതുകൊണ്ട് എഫോർട്ട് ഉടനെ നമുക്ക് താഴെ കാണിച്ചിരിക്കുന്നത് പോലെ കണ്ടുപിടിക്കാം Effort 2 4 321 05 കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ പോലെ എഫോർട്ട് രേഖപ്പെടുത്തുന്ന അളവ് പേഴ്സൺ മൻത്സ് അഥവാ മാൻ മൻത്സ് ഉപയോഗിച്ചാണ് അങ്ങനെ ഈ സമവാക്യം ഉപയോഗിച്ച് ഏകദേശം 91 പേഴ്സൺ മൻത്സ് ആണെന്ന് കണ്ടുപിടിക്കാം ഇനി നമുക്ക് നോമിനൽ ഡെവലപ്മെൻറ് ടൈം എത്ര ആകും എന്ന് നോക്കാം നോമിനൽ ഡെവലപ്മെൻറ് ടൈം 2 5 എഫോർട്ട് എക്സ്പോനൻറ് Nominal development time 2 5 effortexponent ഇവിടെ എക്സ്പോനൻറിൻറെ മൂല്യം മോഡ് മാറുന്നതനുസരിച്ച മാറിക്കൊണ്ടിരിക്കും ഓർഗാനിക് ടൈപ്പ് പ്രൊജക്റ്റ് ആയതുകൊണ്ട് എക്സ്പോനൻറിൻറെ മൂല്യം 0 38 ആയിരിക്കും അതുകൊണ്ട് ഉണ്ട് ഇപ്പോൾ എൻറെ പക്കലുള്ള ഏഫോർട്ടിൻറെ മൂല്യവും എക്സ്പോനൻറിൻറെ 0 38 എന്ന് മൂല്യവും സമവാക്യത്തിൽ ഉപയോഗിക്കാം അങ്ങനെയെങ്കിൽ എനിക്ക് എത്ര ലഭിക്കും നോക്കുക നമുക്ക് നോമിനൽ ഡെവലപ്മെൻറ് ടൈം സമം 2 5 എന്ന് ലഭിക്കുന്നു അത് ഒരു കോൺസ്റ്റൻറ് ആണ് ഇത് എന്തായിരിക്കാം എഫോർട്ട് സമം 91എക്സ്പോനൻറ് ഇത് ഒരു ഓർഗാനിക് സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ആയതിനാൽ എക്സ്പോനൻറിൻറെ മൂല്യം 0 38 ആണ് ഞാൻ ഈ സമവാക്യം പരിഹരിക്കുംപോൾ നോമിനൽ ഡെവലപ്മെൻറ് ടൈം 14 മാസങ്ങൾ എന്ന് ലഭിക്കുന്നു ഏകദേശം 14 മാസങ്ങൾ അടുത്ത ചോദ്യം ഈ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് എത്രമാത്രം ചിലവ് വരുമെന്നത് കണ്ടുപിടിക്കുക എന്നതാണ് ഇനി ഓർഗാനിക് പ്രോഡക്ട് ഡെവലപ്പ് ചെയ്യുന്നതിനായി നമുക്ക് ഉണ്ടാകാവുന്ന ചിലവ് അതായത് ജോലിക്കാർക്കുള്ള ഉള്ള ചെലവ് ഏതാണ്ട് 91 ഗുണം 15000 അത് എത്രയായിരിക്കും അതായത് ഏകദേശം 14 ലക്ഷത്തി 65000രൂപ ആണ് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് തന്നാൽ എങ്ങനെ അതിന്റെ എഫർട്ടും നോമിനൽ ഡെവലപ്മെന്റ് ടൈമും കോസ്റ്റും കണ്ടുപിടിക്കാൻ സാധിക്കും ഒന്നാമത്തെ പടി എന്ന് പറയുന്നത് അത് എന്ത് തരം പ്രോഡക്റ്റ് ആണ് എന്നത് മനസ്സിലാക്കുക എന്നതാണ് കാരണം പരീക്ഷയിൽ ഓർഗാനിക് സോഫ്റ്റ്വെയർ എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കാൻ ഇടയില്ല ചിലപ്പോൾ ഒരു ഇൻഫർമേഷൻ സിസ്റ്റം എന്നായിരിക്കാം തന്നിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ സാമാന്യബോധം ഉപയോഗിച്ച് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് ഓർഗാനിക് സോഫ്റ്റ്വെയർ തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം റിയൽ ടൈം സിസ്റ്റം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ അത് ഒരു എംബഡ് സോഫ്റ്റ്വെയറാണ് അതുപോലെതന്നെ കോൺസ്റ്റൻസുകളുടെ മൂല്യം നാം മനപ്പാഠമാക്കി സമവാക്യത്തിൽ ഉപയോഗിക്കണം അതിനാൽ 'c' 'k' എന്നിവയുടെ മൂല്യം സമവാക്യത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് എഫോർട്ട് കണ്ടെത്തിയത്തിനുശേഷം തുടർന്നു നോമിനൽ ടൈം കണ്ടുപിടിക്കുക മുൻപത്തെ ഘട്ടത്തിൽ ലഭിച്ച എഫോർട്ടിൻറെ ആ മൂല്യം ഉപയോഗിക്കുക തുടർന്നു കോൺസ്റ്റൻറിൻറെ മൂല്യം വീണ്ടും ഓർഗാനിക് സെമിഡിറ്റാച്ചഡ് നിങ്ങളുടെ എംബെഡെഡ് എന്നിങ്ങനെയുള്ള വ്യത്യസ്ത മോഡുകൾക്കായി വ്യത്യാസപ്പെടും അതിനാൽ നിങ്ങൾക്കു നോമിനൽ ഡെവലപ്മെൻറ് ടൈം ലഭിക്കുമെന്നും സ്റ്റാഫ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി തുടർന്നു നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ചോദ്യത്തിൽ ഡെവലെപ്പറുടെ ശരാശരി ശമ്പളം എത്രയാണോ അതിനെ എഫോർട്ട് കൊണ്ട് ഗുണിച്ചാൽ പ്രോജക്റ്റ് ഡെവലപ് ചെയ്യുന്നതിന് ആവശ്യമായ മൊത്തം ചിലവ് നിങ്ങൾക്ക് ലഭിക്കും ഇനി നമുക്ക് പെട്ടെന്ന് മറ്റൊരുദാഹരണം നോക്കാം നിങ്ങൾ ഓർഗാനിക് മോഡിലുള്ള ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്ട് ഡെവലപ്പ് ചെയ്യുകയാണ് സങ്കൽപ്പിക്കുക അവ ഏകദേശം ഒരു ലക്ഷം ലൈൻസ് ഓഫ് കോഡുകളാണ് ഇനി അതിൻറെ എഫോർട്ടും ഡെവലപ്മെൻറ് ടൈമും നാം കണ്ടെത്തി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നമുക്ക് ഇതൊരു ഓർഗാനിക് പ്രോഡക്റ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് കാണാം അതിനാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ 'c' യുടെയും 'k' യുടെയും മൂല്യം തിരഞ്ഞെടുക്കാം അതിൻറെ സൈസിൻറെ മൂല്യം ഒരു ലക്ഷം ലൈൻസ് ഓഫ് കോഡ് അത് 100 കിലോ ലൈൻസ് ഓഫ് കോഡ് ഒരു ഓർഗാനിക് പ്രോഡക്റ്റിൻറെ 'c' യുടെ മൂല്യം 2 4 ആണെന്നും 'k' യുടെ മൂല്യം 1 05 ആണെന്നും നമുക്കറിയാം അത് മൂല്യങ്ങളുടെ സമവാക്യത്തിൽ ഉപയോഗിക്കാം അതുപോലെതന്നെ സൈസ് 100 KLOC ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നോമിനൽ എഫോർട്ട് 2 4 1 അതായത് 302 1 മാൻ മന്ത്സ് അഥവാ 302 മാൻ മന്ത്സ് എന്ന് പറയാം അപ്പോൾ ഇതാണ് എഫോർട്ട് അങ്ങനെയെങ്കിൽ നോമിനൽ ഡെവലപ്മെൻറ് ടൈം എത്രയായിരിക്കും 5എഫോർട്ട്കോൺസ്തന്റെ ഓർഗാനിക് മുതൽ ഈ കോൺസ്റ്റൻറ് മൂല്യം 0 38 ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് 8 6 മാസങ്ങൾ എന്ന് കിട്ടും അപ്പോൾ ഈ കേസിൽ പ്രോജക്റ്റിനെ നോമിനൽ എഫോർട്ട് 302 1 മാൻ മ്ന്ത്സ് അല്ലെങ്കിൽ പേർസൺ മന്ത്സ് എന്നും നോമിനൽ ഡെവലപ്മെൻറ് ടൈം 8 6 മാസങ്ങൾ എന്നും ലഭിക്കുന്നു നിങ്ങൾക്ക് മറ്റൊരു ഉദാഹരണം എടുക്കാം ബിസിനസ് അപ്ലിക്കേഷന് ആവശ്യമായ ഒരു സോഫ്റ്റ്വെയർ പ്രോജക്ടിനെക്കുറിച്ച് സങ്കൽപ്പിക്കുക പുറമേ നിന്ന് വാങ്ങിയാൽ അതിന് 15000 രൂപ കോസ്റ്റ് ആവുകയും അതിൻറെ സൈസ് 40 KLOC ആയെന്നും വിചാരിക്കുക കമ്പനിക്ക് ഉള്ളിൽ തന്നെയുള്ള ഉള്ള ഒരു ഡെവലപ്പർമാർക്ക് ഒരു പ്രോഗ്രാമിന് അഥവാ ഒരു മാസത്തിനു 6000 രൂപ ചിലവാകുമെന്ന് കരുതുകഇവിടെ ഓവർഹെഡുകൾ ഉൾപ്പെടെയുള്ള പേർസൺ മന്ത്സ് നോമിനൽ എഫോർട്ടും ഡെവലെപ്മെൻറ് ടൈമും പ്രോജക്റ്റിൻറെ മൊത്തം ചെലവും കണക്കാനായി ഉപയോഗിക്കുന്നു ആ പ്രോഡക്റ്റ് എന്ത് തരം പ്രോഡക്റ്റ് ആണ് ഉള്ളത് പ്രത്യക്ഷമായി പറഞ്ഞിട്ടില്ല എന്നാൽ അത് ഒരു ബിസിനസ് ആപ്ലിക്കേഷൻ ആണെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് ബിസിനസ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ആണ് അപ്പോൾ ഒരു ഓർഗാനിക് ടൈപ്പ് പ്രൊജക്റ്റ് ആണെന്നുള്ളത് പരോക്ഷമായി നിങ്ങൾക്ക് മനസിലാക്കാം അപ്പോൾ നിങ്ങൾ ഇവിടെ ആരംഭിക്കേണ്ടിയിരിക്കുന്നു അതായത് ഈ പ്രോഡക്റ്റ് ഒരു ബിസ്സിനസ് ആപ്പ്ളിക്കേഷനു വേണ്ടി ആണെങ്കിൽ ഓർഗാനിക് ടൈപ്പ് പ്രൊജക്റ്റ് ആയി വേർതിരിക്കുക അങ്ങനെയെങ്കിൽ 'c' യുടെയും 'k' യുടെയും മൂല്യങ്ങൾ യഥാക്രമം 2 4 ഉം 1 5 ഉം ആയിരിയ്ക്കും പ്രോഡക്ട് സൈസും തന്നിരിക്കുന്നു ചിലപ്പോൾ പ്രോഡക്റ്റ് സൈസ് ലൈൻസ് ഓഫ് കോഡിലും മറ്റു ചിലപ്പോൾ കിലോ ലൈൻസ് ഓഫ് കോഡ് ലുംആയിരിക്കും തരിക ഇവിടെ പ്രോഡക്ട് സൈസ് 40 കെ സി ആണ് തന്നിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇവിടെ സൈസിൻറെ സ്ഥാനത്ത് 40 ഉപയോഗിക്കണം അതായത് അത് ഇവിടെ എത്ര മാൻ മന്ത്സ് ആയി എന്നതും തുടർന്ന് എൻജിനീയറുടെ ചിലവ് എത്രയാണ് എന്നതും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഹൌസ് ഡെവെലപ്പർമാരെ കുറിച്ച് ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഒരാൾ 6000 രൂപ വെച്ച് ഒരു മാസം സമയം എടുക്കുന്നു അങ്ങനെയെങ്കിൽ ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കണം അങ്ങനെയെങ്കിൽ പ്രോഗ്രാമിന് ആകെ കോസ്റ്റ് എത്രയാകുന്നു അതായത് എഫോർട്ട് 115 5 ഉം മാസ ചിലവ് 6000 ഉം ആകുന്നു അതായത് അത് ഈ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ആകെ 692 669 രൂപ ചിലവ് ആകുന്നു അടുത്തതായി നമുക്ക് മറ്റൊരു ഉദാഹരണം എടുക്കാം നിങ്ങൾ ഒരു ഓർഗാനിക് പ്രോജക്ട് ചെയ്യുകയാണ് എന്നിരിക്കട്ടെ അതിൻറെ സൈസ് 7 5 KLOC ആണെന്ന് വിചാരിക്കുക അപ്പോൾ ഓർഗാനിക് പ്രോഡക്റ്റ് നമുക്ക് അറിയാവുന്നത് പോലെ 'c' യുടെ മൂല്യം 2 4 ഉം 'k' കെ യുടെ മൂല്യം 1 05 ഉം ആയിരിക്കും അതുകൊണ്ട് എഫോർട്ട് 2 4 7 അത് ഏകദേശം 20 സ്റ്റാഫ് മാസങ്ങൾ ആയിരിക്കും ഒരു സാധരണ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയാൻ എടുക്കുന്ന സമയം 2 520കോൺസ്റ്റന്റ ആണ് അതോടൊപ്പം കോൺസ്റ്റന്റ് മൂല്യം 0 38 ആണ് ഇതു ഏകദേശം 8 മാസം ആണ് അടുത്തത് എങ്ങനെ ആവറേജ് സ്റ്റാഫിനെ കണ്ടു പിടിക്കാം എന്നത് ആണ് അതു എഫോർട്ട് ഡെവലെപ്മെൻറ് ടൈം കണക് കൂടി കണ്ടു പിടിക്കാം അതായത് 208 ഏകദേശം 2 5 സ്റ്റാഫ് മെംബേർസ് നമുക്ക് ആവശ്യമായി വരും അടുത്ത് കണക് കൂട്ടി നോക്കേണ്ടത് പ്രോഡക്റ്റിവിറ്റി ആണ് ടോട്ടൽ സൈസ് 7 5locs അല്ലെകിൽ 7005locs ആണ് 7005 locs 20 സ്റ്റാഫ് മന്ത്സ് ആണ് ഇതിൽ ഇന്നും നമുക്ക് 20 സ്റ്റാഫ് മന്ത്സ് ആവശ്യമാണ് എന്നു മനസിലായി കാരണം സ്റ്റാഫ് എഫോർട്ട് 20 ആണ് സ്റ്റാഫിനെ അപ്പോൾ നമ്മൾ 375LOCS ഉണ്ടാകണം അതായത് പ്രോഡക്റ്റിവിറ്റി 375 LOCS ആണ് സ്റ്റാഫ് മന്ത്സ്ഇന് വേറൊരു ഒരു ഉദാഹരണം ഇങ്ങനെ പറയുന്നു ഒരു എംബഡ് പ്രോജക്ടിന് 50 KLOC സൈസ് ഉണ്ടെന്നു വിചാരിക്കുക അതിൻറെ നോമിനൽ എഫർട്ടും നോമിനൽ ഡെവലപ്മെൻറ് ടൈമും സ്റ്റാഫിനെയും പ്രൊജക്റ്റ് യുടെയും പ്രൊജക്റ്റ് വ്യക്തിയുടേയും പ്രോഡക്ടിവിറ്റിയുടെയും ശരാശരി മൂല്യവും നമ്മൾ വികസിപ്പിച്ച എടുക്കണം ഇവിടെ പ്രോഡക്റ്റ് സൈസ് 50 KLOC എന്ന് തന്നിട്ടുണ്ട് അതുപോലെതന്നെ ഒരു എംബഡ് പ്രോജക്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനാൽ നമുക്ക് അറിയാവുന്നത് പോലെ 'c' യുടെ മൂല്യം 3 6 ഉം 'k' കെ യുടെ മൂല്യം 1 2 ഉം ആയിരിക്കും ഇത് ഉപയോഗിച്ച് നമുക്ക് എഫർട്ടിൻറെ മൂല്യം കണ്ടെത്താൻ സാധിക്കും അതുകൊണ്ട് നമുക്ക് മൂല്യങ്ങൾ ഉപയോഗിച്ചു നോക്കാം എപ്പോൾ സമവാക്യത്തെ നമുക്ക് ഇപ്പോൾ സമവാക്യത്തെ ഇങ്ങനെ 3 0 എന്ന് സൂചിപ്പിക്കാം ഈ സമവാക്യം പരിഹരിക്കുന്നതിൽ കൂടി ഈ എംബഡ് പ്രോജക്ട് ന് ഏകദേശം 394 പേഴ്സൺ മന്ത്സ് എന്ന് മനസ്സിലാക്കാം നോമിനൽ ഡെവലപ്മെൻറ് ടൈം 2 5 എഫർട്ട്കോൺസ്റ്റന്റ് ഇവിടെ എഫർട്ട മൂല്യം 394 ആകുന്നു കൂടാതെ എമ്പടെഡ് പ്രോജക്ടിൽ കോൺസ്റ്റൻൻറെ അല്ലെങ്കിൽ എക്സ്പ്പോണെന്റ് മൂല്യം 0 32 എന്നും ആകുന്നു അങ്ങനെയെങ്കിൽ ഇതിന് എത്ര ആവശ്യം വരും ഇതിൽ ഡെവലപ്മെൻറ് ടൈം നിങ്ങൾക്ക് 17 മാസങ്ങൾ എന്ന് കിട്ടും ശരാശരി സ്റ്റാഫിനെ എണ്ണം എത്രയാണ് എന്നാണ് കിട്ടുക അതായത് എഫർട്ട് ഭാഗം നോമിനൽ ഡെവലപ്മെൻറ് ടൈം ചെയ്യുമ്പോൾ 23 സ്റ്റാഫ് മെമ്പേഴ്സ് എന്ന് കിട്ടും നമുക്ക് ആകെ പ്രൊഡക്ടിവിറ്റി ലഭിക്കുന്നതിനായി ആകെയുള്ള സൈസിന് ആകെ ഉള്ള എഫർട്ട് കൊണ്ട് ഹരിക്കാം അത് 50000 LOC ഭാഗം 394 സ്റ്റാഫ് മാസങ്ങൾക്ക് സമമായിരിക്കും അതായത് ഒരു സ്റ്റാഫ് മാസത്തിൽ ഏകദേശം 127 LOC അതു കൊണ്ട് പരീക്ഷയിൽ ചില ചോദ്യങ്ങൾ ഇതു പോലെ എളുപ്പമായിരിക്കും അതിൽ നിന്ന് നിങ്ങൾ ആദ്യം എന്തു തരം പ്രോഡക്റ്റ് ആണ് അത് എന്ന് കണ്ടു് പിടിക്കുക അതിനു ശേഷം ആ പ്രോഡക്റ്റ്കളുടെ കോൺസ്സ്റ്റന്റ്കളുടെ മൂല്യം കണ്ടെത്തുക അതിനു ശേഷം നിങ്ങൾ ആവശ്യമായ സമവാക്യം ഉപയോഗിച്ച് എഫർട്ട് ഡെവലപ്പ്മെന്റ് ടൈമും കണ്ടെത്തുക അങ്ങനെ നിങ്ങൾക്ക് ആ ശരാശരി സ്റ്റാഫുകളുടെ എണ്ണം പ്രൊഡക്ടിവിറ്റി ആകെയുള്ള കോസ്റ്റ് മുതലായവയെല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കും അതുകൊണ്ട് ദയവായി പുതിയ പുസ്തകത്തിൽ നിന്നും ഇൻറർനെറ്റിൽ നിന്നും കുറച്ച് ഉദാഹരണങ്ങൾ ചെയ്തു നോക്കുക അതുകൊണ്ട് ഒരു കമ്പനിയിലെ നിലവിലുള്ള ഉപഭോക്താക്കളിൽനിന്ന് ഒരു പുതിയ സംരംഭത്തിലേക്ക് വരുവാനിരിക്കുന്ന ഉപഭോക്താക്കളെ തെരഞ്ഞെടുക്കുവാൻ ആയിട്ടുള്ള ഒരു ചെറിയ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ ഉള്ള എക്സസൈസ് ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ് ഇവിടെ 30 KLOC എഫർട്ട് ആവശ്യമാണെന്ന് തന്നിരിക്കുന്നു കൂടാതെ ആവശ്യമായ കഴിവുള്ള ഡെവലപ്പർമാരെ മാസത്തിൽ 50000 രൂപയ്ക്ക് ലഭിക്കുന്നതുമാണ് എന്നിരിക്കിലും ഒരു ലക്ഷം രൂപയ്ക്ക് എല്ലാ ആവശ്യങ്ങളും പിന്തുണയ്ക്കുന്ന സോഫ്റ്റ്വെയർ വാണിജ്യാടിസ്ഥാനത്തിൽ ലഭ്യവുമാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് കഴിവുള്ള ഒരു ഡെവലപ്പർമാർക്ക് മാസത്തിൽ 50000 രൂപ കൊടുക്കേണ്ടതുണ്ട് അതേസമയം തന്നെ ആകെ ഒരു ലക്ഷം രൂപയ്ക്ക് എല്ലാ ആവശ്യങ്ങളും പിന്തുണയ്ക്കുന്ന സോഫ്റ്റ്വെയർ മാർക്കറ്റിൽ ലഭ്യവുമാണ് അതുകൊണ്ട് ഇവിടത്തെ ചോദ്യം എന്താണെന്നുവെച്ചാൽ നമ്മൾ അഥവാ കമ്പനി ഇങ്ങനെയൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കണോ അതോ പുറത്തു നിന്ന് വാങ്ങിക്കണമോ എന്നതാണ് അതിനാൽ നമ്മൾ ഒരു തീരുമാനം എടുക്കണം അതിനുവേണ്ടി നമ്മൾ ഇത് എന്ത് ടൈപ്പ് പ്രോഡക്റ്റ് ആണ് എന്നത് ആദ്യം മനസ്സിലാക്കണം പിന്നീട് അതിന് ആവശ്യമായ എഫർട്ട് കണ്ടുപിടിക്കണം അതിനുശേഷം ഡെവലപ്പ് ചെയ്യുന്നവർക്ക് ഓരോ മാസവും ശരാശരി എത്ര സാലറി കൊടുക്കുവാൻ സാധിക്കും എന്നതും കണ്ടുപിടിക്കുക അതിനുശേഷം ആകെ എത്ര കോസ്റ്റ് ആയി എന്നത് കണ്ടുപിടിച്ച അതിനെ മാർക്കറ്റിലുള്ള ഉള്ള കോസ്റ്റ് ആയിട്ട് താരതമ്യം ചെയ്യുക നമുക്കറിയാം മാർക്കറ്റിൽ നിന്ന് ഒരാൾ ഈ സോഫ്റ്റ്വെയർ വാങ്ങിയാൽ അയാൾക്ക് ഒരു ലക്ഷം രൂപയാണ് ചിലവാകുന്നത് അത് അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച കോസ്റ്റും മാർക്കറ്റിലെ കോസ്റ്റും തമ്മിൽ താരതമ്യം ചെയ്തു കമ്പനി അത് വാങ്ങണമോ അതോ ഉണ്ടാകണമെന്ന് തീരുമാനിക്കുക ഈ മാർഗ്ഗരേഖകൾ നിങ്ങൾക്ക് ലാഭകരമായി ഒരു സോഫ്റ്റ് വെയർ ഉണ്ടാക്കണമോ അതോ വാങ്ങണമോ എന്ന് തീരുമാനിക്കുവാൻ സഹായിക്കും വാങ്ങണമോ അതോ ഉണ്ടാക്കണമോ എന്നത് തീരുമാനിക്കുവാൻ താഴെ പറയുന്ന വ്യവസ്ഥകളെ ആശ്രയിക്കാം കമ്പനിയിൽ ഡെവലപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർനേക്കാൾ മുൻപ് മാർക്കറ്റിൽ സോഫ്റ്റ്വെയർ ലഭ്യമാകുമോ പുതിയ സോഫ്റ്റ്വെയർ ഏറ്റെടുത്ത് ഇഷ്ടാനുസൃതം ആക്കുന്നതിന് ആവശ്യമായ ചെലവിനേക്കാൾ കൂടുതൽ ചിലവ് ആകുമോ കമ്പനിയിൽ തന്നെ പുതിയ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതിനുവേണ്ടി സോഫ്റ്റ്വെയർ മെയിൻറനൻസ്സിന് മുതലായവയ്ക്ക് പുറത്തുനിന്ന് ആവശ്യമായ പിന്തുണയ്ക്കള്ള ചിലവ് കമ്പനിയിൽനിന്ന് തന്നെയുള്ള ചിലവിനേക്കാൾ കുറവായിരിക്കുമോ അതായത് അത് ഒരു പ്രോഡക്റ്റ് വാങ്ങണമോഉൽപാദിപ്പിക്കണമോ എന്ന് തീരുമാനിക്കുന്നതിനു മുമ്പ് നമ്മൾ മുകളിൽ പറഞ്ഞ മാർഗ്ഗരേഖകൾ പരിഗണിക്കേണ്ടതാണ് അങ്ങനെ നമുക്ക് ശരിയായ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കും അങ്ങനെ ഒടുവിൽ നാം ഇത്രയും നേരം ചർച്ച ചെയ്തതിൻറെ സംഗ്രഹത്തിലേക് എത്തിയിരിക്കുകയാണ് ആദ്യമായി നമ്മൾ ബേസിക് COCOMO എന്ന ആശയം ആണ് ചർച്ച ചെയ്തത് പിന്നീട് നാം വിവിധ തരത്തിലുള്ള ഉള്ള പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ പ്രോഡക്റ്റ് അതായത് ഓർഗാനിക് സെമി ഡിറ്റാച്ചഡ് എംബഡഡ് മുതലായവ കണ്ടു ഒടുവിൽ ബേസിക് COCOMO ഉപയോഗിച്ച് കോസ്റ്റും എഫർട്ടും കണ്ടുപിടിക്കാനുള്ള സമവാക്യങ്ങൾ കണ്ടു അവസാനമായി ബേസിക് COCOMO യിൽ വരുന്ന ചില ഉദാഹരണങ്ങൾ ഉപയോഗിച്ച് കോസ്റ്റും എഫർട്ടും കണക്കാക്കി നാം ഈ പുസ്തകങ്ങളിൽ നിന്നാണ് റഫറൻസുകൾ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻറെ വിശദീകരണങ്ങൾ ഈ പുസ്തകങ്ങളിൽ കാണാൻ സാധിക്കും വളരെ നന്ദി